സുപ്രഭാതം എഞ്ചിനീയറിംഗ് മെട്രോളജി എന്ന കോഴ്സിലേക്ക് തിരികെ സ്വാഗതം നമ്മൾ ഈ കോഴ്സിന്റെ അവസാന ആഴ്ചയിലാണ് ഈ ആഴ്ചയിൽ ക്വാളിറ്റി കൺട്രോളിനെ കുറിച്ച് ഞാൻ ചർച്ച ചെയ്യും ക്വാളിറ്റി കൺട്രോൾ വ്യക്തമായി പറഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ അപ്പോൾ നമുക്ക് അക്സപ്റ്റൻസ് സാംപ്ലിങ്ങിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസിലാകും അതിനാൽ ഞാൻ ഈ പ്രഭാഷണം ക്വാളിറ്റി കൺട്രോളുമായി ആരംഭിക്കുന്നു അതിനാൽ ക്വാളിറ്റി കൺട്രോൾ എന്നാൽ എന്താണ് ക്വാളിറ്റി കൺട്രോൾ എന്നാൽ ഒരു നടപടിക്രമം ആണ് അല്ലെങ്കിൽ നടപടിക്രമങ്ങളുടെ ഒരു കൂട്ടമാണ് അതിന്റെ ഉദ്ദേശം എന്താണെന്നുവെച്ചാൽ ഒരു നിർമ്മിച്ച ഉൽപ്പന്നം നിർവചിക്കപ്പെട്ട ഗുണനിലവാര മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി ഉള്ളതാണ് അതിനാൽ നമുക്ക് ഒരുകൂട്ടം ഗുണനിലവാര മാനദണ്ഡങ്ങളുണ്ട് പ്രത്യേകിച്ചും മെട്രോളജിയിൽ നമുക്ക് മെഷര്മെന്റ് പരിധികൾ ഉണ്ട് ഉദാഹരണത്തിന് ഞാൻ മുമ്പ് പറഞ്ഞത് പോലെ മുമ്പത്തെ പ്രഭാഷണത്തിൽ ഞാൻ ഈ വിഷയം തൊട്ടിരുന്നു അതായത് നമുക്ക് അപ്പർ കൺട്രോൾ ലിമിറ്റും ലോവർ കൺട്രോൾ ലിമിറ്റും ഉണ്ട് ഉൽപ്പാദനത്തിന് ശേഷം അല്ലെങ്കിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ശേഷം നമ്മൾ അളവുകൾ എടുക്കുന്നു അതിനുശേഷം ഞാൻ നിർമ്മിച്ച ഉൽപ്പന്നം നമ്മുടെ സ്പെസിഫിക്കേഷനുകൾ പാലിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ നോക്കുന്നു സ്പെസിഫിക്കേഷനുകളേക്കാൾ കൂടുതൽ നമ്മൾ കണ്ട്രോൾ ലിമിറ്റുകളെക്കുറിച്ച് സംസാരിക്കും സ്പെസിഫിക്കേഷൻ ലിമിറ്റുകളും അതുപോലെ കണ്ട്രോൾ ലിമിറ്റും തമ്മിൽ വ്യത്യാസമുണ്ട് അത് ഞാൻ ഈ പ്രഭാഷണത്തിൽ ചർച്ച ചെയ്യും അതിനാൽ അത് പാലിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അത് മീറ്റ് ചെയ്യുന്നുണ്ടോ അത് ഗുണനിലവാര മാനദണ്ഡങ്ങളുടെ സെറ്റ് പാലിക്കുന്നുണ്ടോ ഇല്ലയോ ഓക്കേ അതിനാൽ ക്വാളിറ്റി കണ്ട്രോൾ സമാനമാണെങ്കിലും ക്വാളിറ്റി അഷ്വറൻസ് എന്നറിയപ്പെടുന്ന മറ്റൊരു പദവുമായി സമാനമല്ല ഈ പ്രഭാഷണത്തിലും ക്വാളിറ്റി കണ്ട്രോളും അതുപോലെ ക്വാളിറ്റി അഷ്വറൻസും തമ്മിൽ ഞാൻ വേർതിരിക്കും അതിനാൽ ക്വാളിറ്റി അഷ്വറൻസ് എന്നത് ഒരു കൂട്ടം നടപടിക്രമങ്ങളായി നിർവചിക്കാം അത് വികസനത്തിൽ ഇരിക്കുന്നതോ അല്ലെങ്കിൽ ജോലി പൂർത്തിയാകുന്നതിന് മുമ്പുള്ള ഒരു ഉൽപ്പന്നമോ അല്ലെങ്കിൽ സേവനമോ ഉറപ്പാക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ് നമ്മൾ യഥാർത്ഥത്തിൽ നിർമ്മിക്കുന്നതിന് മുമ്പ് അത് മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അതിനാൽ ഇത് ക്വാളിറ്റി അഷ്വറൻസ് ആണ് ഇത് യഥാർത്ഥത്തിൽ സാധാരണ നിർമ്മാണത്തിന് മുമ്പാണ് അതിനാൽ ഇത് നിർദ്ദിഷ്ട ആവശ്യകതകൾ നിറവേറ്റുന്നുണ്ടോ ഇല്ലയോ ക്വാളിറ്റി അഷ്വറൻസ് ചിലപ്പോൾ ക്വാളിറ്റി കൺട്രോളിനോടൊപ്പം എക്സ്പ്രെസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരൊറ്റ പദപ്രയോഗമായി എഴുതുന്നു അതിനാൽ ചിലപ്പോൾ ഇത് Q A എന്നും Q C എന്നും പറയപ്പെടുന്നു അതുപോലെ ക്വാളിറ്റി കൺട്രോൾ വകുപ്പ് ക്വാളിറ്റി അഷ്വറൻസുമായി ചേർന്ന് പ്രവർത്തിക്കുന്നു അതിനാൽ നമ്മൾ ഇത് വിശദമായി ചർച്ച ചെയ്യും പക്ഷേ യഥാർത്ഥത്തിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോളിലേക്ക് വരുന്നതിനുമുമ്പ് അത് അളവുകളിൽ കൂടുതലാണ് 1920 കളിൽ ഒന്നാം ലോക മഹായുദ്ധത്തിനു തൊട്ടുപിന്നാലെ വ്യാവസായിക വിപ്ലവ സമയത്ത് വ്യവസായം കൂടുതൽ കൂടുതൽ സാധനങ്ങൾ ഉത്പാദിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു അപ്പോൾ ആ ഘട്ടത്തിൽ വൻതോതിൽ ഉൽപാദനത്തിൽ വർധനയുണ്ടായി അതിനാൽ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം നിർവചിക്കേണ്ടത് പ്രധാനമായി മാറി യഥാർത്ഥത്തിൽ ഫൈനൽ പ്രോഡക്ട്സിൽ എഞ്ചിനീയറിംഗ് ആവശ്യകത ഫോർമാറ്റ് ഉറപ്പുവരുത്തുകയായിരുന്നു തുടക്കത്തിൽ ക്വാളിറ്റിയുടെ ലക്ഷ്യം അതിനാൽ പിന്നീട് നിർമ്മാണ പ്രക്രിയകൾ കൂടുതൽ സങ്കീർണ്ണവും അതുപോലെ ക്വാളിറ്റി പ്രക്രിയയെ നിയന്ത്രിക്കുന്നതിനുള്ള ഒരു ഡിസിപ്ലിനായി വികസിപ്പിച്ചു എല്ലാ വ്യവസായങ്ങളിലും നമുക്ക് ക്വാളിറ്റി കൺട്രോൾ വകുപ്പുണ്ട് അതിനാൽ ഈ വകുപ്പിനെ പൊതുവെ ഇൻസ്പെക്ഷൻ ആൻഡ് ക്വാളിറ്റി കൺട്രോൾ വകുപ്പ് എന്നാണ് വിളിക്കുന്നത് അതുപോലെ നിങ്ങൾ പുസ്തകങ്ങൾ പിന്തുടരുകയാണെങ്കിലും നിങ്ങൾ പുസ്തകങ്ങൾ നോക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ ടോപ്പിക്ക് നോക്കുകയാണെങ്കിലോ നിങ്ങൾക്ക് കാണാൻ കഴിയും അതിന് ഇൻസ്പെക്ഷൻ ആൻഡ് ക്വാളിറ്റി കൺട്രോൾ ഉണ്ടെന്ന് അതിനാൽ ഇൻസ്പെക്ഷൻ എന്നത് നമ്മൾ സ്പെസിഫിക്കേഷൻസ് പരിശോധിക്കുമ്പോൾ ഉദാഹരണത്തിന് നമ്മൾ കമ്പാരേറ്റർ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ ചില അളവുകൾ ഉപയോഗിക്കുന്നു എന്നിട്ട് നമ്മൾ പറയുന്നു അതെ അല്ലെങ്കിൽ ഇല്ല ഓക്കേ ഗോ അല്ലെങ്കിൽ നോ ഗോ സ്വീകാര്യമോ അല്ലെങ്കിൽ അസ്വീകാര്യമോ എന്ന് നമ്മൾ പറയുന്നു അതാണ് ഇൻസ്പെക്ഷൻ എന്നാൽ ഇൻസ്പെക്ഷനിൽ നിന്ന് ലഭിച്ച ഫലങ്ങൾ ഇവിടെ പ്ലോട്ട് ചെയ്യാൻ നമ്മൾ ശ്രമിച്ചപ്പോൾ എവിടെയാണ് ന്യൂനത ഉള്ളതെന്ന് കാണാൻ ശ്രമിക്കുക നമ്മുടെ പ്രക്രിയയോ അല്ലെങ്കിൽ നിർമ്മാണമോ കൺട്രോൾ ലിമിറ്റിന് ഉള്ളിൽ അല്ലെങ്കിൽ അപ്പോൾ നമ്മൾ പ്ലോട്ട് ചെയ്യും അതാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ അതിനാൽ ഇത് ഇൻസ്പെക്ഷന്റെ ഒരു വിപുലീകൃത പതിപ്പാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നിരുന്നാലും ഇൻസ്പെക്ഷൻ നമ്മൾ അതിലേക്ക് പോകുന്നില്ല എന്നാൽ ക്വാളിറ്റി കൺട്രോളിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും 1920 കളിൽ ഇത് ആരംഭിച്ചു അതിനാൽ അപ്പോൾ എനിക്ക് പറയാൻ കഴിയും 1950 ൽ അത് ഒരു നാഴികക്കല്ലായിരുന്നുവെന്ന് 1950 കൾ അത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമായിരുന്നു ക്വാളിറ്റി അഷ്വറൻസ് നിലവിൽ വന്നു ക്വാളിറ്റി അഷ്വറൻസ് കൂടുതലായി ഓഡിറ്റിംഗ് എന്നറിയപ്പെടുന്നു നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന ക്വാളിറ്റി കൺട്രോൾ ടെക്നിക്കുകൾ അവ ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ അതിനാൽ ഇത് ഒരു തരം ഓഡിറ്റ് ആണ് അതിനാൽ ക്വാളിറ്റി പ്രൊഫഷണലുകൾ ക്വാളിറ്റി അഷ്വറൻസും അതുപോലെ ക്വാളിറ്റി ഓഡിറ്റ് ഫങ്ക്ഷൻസും ഉൾപ്പെടുത്തി വിപുലീകരിച്ചു അതിനാൽ സ്വതന്ത്രമായി ക്വാളിറ്റി പരിശോധിക്കുന്നത് മുഖ്യമായും വ്യവസായങ്ങളിലായിരുന്നു അതിൽ തന്നെ പൊതുജനാരോഗ്യവും സുരക്ഷാ പ്രവർത്തനങ്ങളിലും പരമപ്രധാനമാണ് ഇത് 1950 കളിലായിരുന്നു 1980 കളിൽ നിങ്ങൾക്ക് അറിയാവുന്ന ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന പദം നിലവിൽ വന്നു ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്നാൽ നിങ്ങൾ നിർമ്മാണം നടത്തുമ്പോൾ ഗുണനിലവാരം നിലനിർത്തുക എന്നതാണ് അതിനാൽ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റിന് ചില ടെക്നിക്കുകൾ അല്ലെങ്കിൽ ടൂളുകൾ ഉണ്ട് ഒപ്പം ആളുകൾ ഇതിൽ വ്യാപകമായി പ്രവർത്തിച്ചിട്ടുണ്ട് അതിനാൽ ക്വാളിറ്റി ഫംഗ്ഷൻ ഡിപ്ലോയ്മെന്റ് പോലെ അത് ടോട്ടൽ പ്രൊഡക്ടിവ് മെയ്ന്റെനൻസ് ആണ് അതിൽ ജോലി ചെയ്യുന്ന തൊഴിലാളിയെ പ്രക്രിയ നിലനിർത്താൻ പഠിപ്പിക്കുന്നു മാനുഫാക്ചറിംഗിൽ ജോലി ചെയ്യുന്ന തൊഴിലാളി അല്ലെങ്കിൽ അവിടെയുള്ള ഓപ്പറേറ്റർ പ്രക്രിയയെ പരിപാലിക്കുന്നതിനോ നിയന്ത്രിക്കുന്നതിനോ അദ്ദേഹവും വേണ്ടത്ര വൈദഗ്ധ്യമുള്ളയാളാണ് അതാണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ അതിനെ 21 ആം നൂറ്റാണ്ട് എന്ന് വിളിക്കുകയാണെങ്കിൽ ഞാൻ ഇതിനെ 2000 ന് ശേഷം എന്ന് ആയിരിക്കും വിളിക്കുക ക്വാളിറ്റി കൺട്രോൾ വളരെ പ്രധാനപ്പെട്ട ഒന്നായി മാറിയിരിക്കുന്നു കൂടാതെ നമുക്ക് ഇതിൽ ഒന്നിലധികം ഉപകരണങ്ങൾ ഉണ്ടായിരുന്നു ഉപകരണങ്ങൾ എന്നാൽ നൂതന ഉപകരണങ്ങൾ നിലവിൽ വന്നു ഉദാഹരണത്തിന് വെർനിയർ കാലിപ്പർ ഇരുപതാം നൂറ്റാണ്ടിൽ തന്നെ വികസിപ്പിച്ചെടുത്തു 3D അളവുകളെ കുറിച്ചും ഈ ആഴ്ചയുടെ അവസാനം ഞാൻ ചർച്ച ചെയ്യും 3D അളവുകളിൽ നമുക്ക് ത്രിമാന അളവ് എടുക്കാൻ കഴിയും ഉദാഹരണത്തിന് നമുക്ക് സ്കാൻ ചെയ്യാൻ കഴിയും അതുപോലെ നമ്മൾ ചർച്ച ചെയ്യും കൂടാതെ ഞങ്ങൾ നിങ്ങളെ ഇവിടെയുള്ള ലബോറട്ടറിയിലേക്ക് കൊണ്ടുപോകും എന്നിട്ട് കോര്ഡിനേറ്റ് മെഷറിങ്ങ് മെഷീന് നമ്മൾ കാണും 3D കോർഡിനേറ്റുകൾ എങ്ങനെ ഇവ അളക്കുന്നു അങ്ങനെ അത് നിലവിൽ വന്നു കൂടാതെ റാപ്പിഡ് മാനുഫാക്ചറിങ് അതിനുശേഷം റാപ്പിഡ് പ്രോട്ടോടൈപ്പിങ് അത് ഇപ്പോൾ അഡിറ്റീവ് മാനുഫാക്ചറിങ് ആണ് അതിനാൽ ആ കാര്യങ്ങൾ നിലവിൽ വന്നു കൂടാതെ ആളുകൾ അതിൽ പ്രവർത്തിക്കുന്നു അതിനാൽ ക്വാളിറ്റി കൺട്രോൾ ഈ നാഴികക്കല്ലുകളിലൂടെ സഞ്ചരിക്കുന്നു അതിനാൽ ഇതിന്റെ ഉള്ളടക്കം ഞാൻ ഈ പ്രഭാഷണത്തിലെ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോളും അതിന്റെ വർഗ്ഗീകരണവും എന്ന ഭാഗത്ത് കവർ ചെയ്യും അതിനുശേഷം സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോസസ്സ് കൺട്രോൾ അതിനുശേഷം നമ്മൾ കൺട്രോൾ ചാർട്ടുകളെ കുറിച്ച് ചർച്ച ചെയ്യും അതിനുശേഷം ഞാൻ ചർച്ച ചെയ്യും എന്താണ് പ്രോസസ് കേപ്പബിലിറ്റി കൺട്രോൾ ചാർട്ടുകൾ M S Excel ൽ കൺട്രോൾ ചാർട്ടുകൾ പ്രവർത്തിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഓക്കേ ഏതൊക്കെ എത്ര തരം കൺട്രോൾ ചാർട്ടുകൾ ഉണ്ടെന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കുന്നു വ്യത്യസ്ത തരം കൺട്രോൾ ചാർട്ടുകളുടെ വേരിയബിളുകളും ആട്രിബ്യൂട്ടുകളും ഉണ്ട് അതിനുശേഷം എങ്ങനെയാണ് നമ്മൾ ആ ചാർട്ടുകളെ excel ൽ പ്ലോട്ട് ചെയ്യുന്നത് പ്രോസസ്സ് നിയന്ത്രണത്തിലല്ലെങ്കിൽ അതിനുശേഷം എന്ത് നടപടിയാണ് പിന്തുടരുന്നത് അതിനാൽ പ്രോസസ് കേപ്പബിലിറ്റിയും നമ്മൾ ചർച്ച ചെയ്യും അടുത്ത പ്രഭാഷണത്തിൽ ഞാൻ അക്സെപ്റ്റൻസ് സാംപ്ലിങ്ങിനെക്കുറിച്ച് ചർച്ച ചെയ്യും അതിനാൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോളിനെ മൂന്ന് പ്രധാന വിഭാഗങ്ങളായി തരം തിരിക്കാം ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോസസ്സ് കൺട്രോൾ അക്സെപ്റ്റൻസ് സാംപ്ലിങ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സിനെ കുറിച്ച് നമ്മൾ മുമ്പത്തെ പ്രഭാഷണങ്ങളിൽ ധാരാളം ചർച്ച ചെയ്തിട്ടുണ്ട് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് ക്വാളിറ്റി ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ചും റിലേഷന്ഷിപ്പിനെ കുറിച്ചും വിവരിക്കുന്നതിന് ഉപയോഗിക്കുന്നു ഇതിൽ മീൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ റേഞ്ച് പോലുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് ഉൾപ്പെടുന്നു നമുക്ക് സെൻട്രൽ ടെന്ഡന്സിയുടെ അളവുകൾ ഉണ്ട് തുടർന്ന് നമുക്ക് ഡിസ്പെര്ഷന്റെ അളവുകൾ ഉണ്ട് അവയെല്ലാം ഇവിടെ ചർച്ചചെയ്യുന്നു C അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ എന്ന പദം സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളുകളുടെ ഗണത്തെ വിവരിക്കാൻ ഉപയോഗിക്കുന്നു ഓക്കേ ഇത് ഞാൻ മുമ്പ് പറഞ്ഞതാണ് ഇപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോസസ്സ് കൺട്രോൾ ഒരു പ്രക്രിയയിൽ നിന്നുള്ള ഔട്ട്പുട്ടിന്റെ റാൻഡം സാമ്പിളിനെ പരിശോധിക്കുകയും ഒപ്പം മുൻകൂട്ടി നിശ്ചയിച്ച റേഞ്ചിൽ വരുന്ന സവിശേഷതകളുള്ള ഒരു ഉൽപ്പന്നം പ്രോസസ്സ് നിർമ്മിക്കുന്നുണ്ടോ എന്ന് തീരുമാനിക്കുന്നു അതിനാൽ പ്രോസസ്സ് ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന ചോദ്യത്തിന് പ്രോസസ്സ് കൺട്രോൾ ഉത്തരം നൽകുന്നു ചില ആളുകൾ പറയുന്നത് നിങ്ങൾ പുസ്തകങ്ങൾ വായിച്ചാൽ അതിൽ പറയുന്നത് ക്വാളിറ്റി അഷ്വറൻസ് കൈകാര്യം ചെയ്യുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോസസ് കൺട്രോളും അതുപോലെ ക്വാളിറ്റി കൺട്രോൾ കൈകാര്യം ചെയ്യുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോളിനെ ആണ് C സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോസസ്സ് കൺട്രോൾ ക്വാളിറ്റി അഷ്വറൻസ് ഭാഗത്ത് വരുന്നില്ല എന്നാൽ ചില ആളുകൾ ഈ രീതിയിലും അതിനെ വിവരിക്കും ഞാൻ അതിനെ ഈ രീതിയിൽ എടുക്കുന്നു അതായത് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ അവിടെ ഉണ്ടെന്ന് കൂടാതെ നമ്മൾ ക്വാളിറ്റിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ വിവരിക്കുമ്പോൾ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് അവിടെ ഉണ്ട് അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോസസ്സ് കൺട്രോൾ അതിന്റെ ഭാഗമാണ് അതിനാൽ ഞാൻ ഇത് ഈ സന്ദർഭത്തിൽ അങ്ങനെ എടുക്കുന്നു തുടർന്ന് അക്സെപ്റ്റൻസ് സാംപ്ലിങ് ഇത് എന്താണെന്ന് ഞാൻ ചർച്ച ചെയ്യും അതു SQC ൽ വരുന്നുണ്ട് അതിനാൽ നമ്മൾ ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളുകൾ അക്സെപ്റ്റൻസ് സാംപ്ലിങിലും ഉപയോഗിക്കുന്നു സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളുകൾ എന്നതിനർത്ഥം നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഡാറ്റ ജനറേറ്റ് ചെയ്യാൻ നമുക്ക് കഴിയും ചില അനുമാനങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് ചില കണക്കുകൂട്ടലുകൾ നടത്താൻ കഴിയും കൂടാതെ നമുക്ക് ഗ്രാഫുകൾ പ്ലോട്ട് ചെയ്യാനും കഴിയും ആ ഗ്രാഫുകൾ നോക്കുമ്പോൾ നമുക്ക് ചില വിവരങ്ങൾ നേടാനും അതിനെക്കുറിച്ച് കുറച്ച് അറിവ് സംഗ്രഹിക്കാനും കഴിയും മാത്രമല്ല നമുക്ക് അതിൽ പ്രവർത്തിക്കാനും കഴിയും അതിനാൽ അതുകൊണ്ടാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന പദം ഇവിടെയുള്ളത് ഇപ്പോൾ അടുത്തത് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് അത് ഞാൻ കഴിഞ്ഞ പ്രഭാഷണത്തിൽ ചർച്ച ചെയ്തു ഓക്കേ അതിനാൽ ഇത് നമുക്ക് മീൻ റേഞ്ച് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൂടാതെ അതുപോലെ ഉള്ള എല്ലാ കാര്യങ്ങളും ഞാൻ അതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല അതിനാൽ അടുത്തത് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സുകളുടെ ഉപയോഗത്തിലേക്ക് വ്യാപിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോസസ്സ് കൺട്രോൾ രീതികളാണ് ഉൽപ്പന്നത്തിൻറെയും പ്രക്രിയയുടെയും ഗുണനിലവാരം നിരീക്ഷിക്കുന്നതിന് വേണ്ടി ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സുകളുടെ ഉപയോഗം ഇത് വിപുലീകരിക്കുന്നു ഉൽപാദന പ്രക്രിയയുടെ വിവിധ വശങ്ങൾ നിരീക്ഷിക്കുന്നതിന് വേണ്ടി വ്യത്യസ്ത തരം കൺട്രോൾ ചാർട്ടുകൾ ഉപയോഗിക്കുന്നു അതിനാൽ നമ്മൾ ഇതുവരെ പഠിച്ചതുപോലെ പൊതുവായതും അതുപോലെ അസൈനബിൾ ആയ കാരണങ്ങളുമുണ്ട് നമ്മൾ പറഞ്ഞതുപോലെ നമ്മൾ അളവെടുക്കുമ്പോൾ ഒരു സിസ്റ്റമാറ്റിക് എറർ ഉണ്ട് ഒരു റാൻഡം എറർ ഉണ്ട് സിസ്റ്റമാറ്റിക് എറർ ൽ ചിലപ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാൽ തീർച്ചയായും നമുക്ക് റാൻഡം എറർ ൽ പ്രവർത്തിക്കാൻ കഴിയും അതിനാൽ പൊതുവായ കാരണങ്ങളും അസൈനബിൾ കാരണങ്ങളും ഉണ്ട് ഓക്കേ ഓരോ ഉൽപ്പന്നത്തിലും ഉൽപാദനത്തിൽ വ്യത്യാസമുണ്ടാകാനുള്ള കാരണങ്ങൾ ഇവയാണ് C ഉപയോഗിച്ച് പൊതുവായതോ അല്ലെങ്കിൽ സാധാരണമായതോ ആയ വ്യതിയാനത്തിന്റെ അളവ് നിർണ്ണയിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു നമ്മൾ ഇവിടെ S C ഉപയോഗിക്കുന്നു തുടർന്ന് ഉൽപാദനം നോർമൽ റേഞ്ചിനുള്ളിൽ തുടരുന്നുവെന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടി നമ്മൾ ഉൽപാദന പ്രക്രിയയെ നിരീക്ഷിക്കുന്നു നമ്മൾ അതിനെ സാധാരണ അല്ലെങ്കിൽ നോർമൽ റേഞ്ച് എന്ന് വിളിക്കുന്നു പക്ഷേ ഞാൻ ഇവിടെ പറയാൻ ശ്രമിക്കുന്ന കാര്യം പ്രക്രിയ നിയന്ത്രണവിധേയമാണെന്ന് ഉറപ്പാക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു എന്നതാണ് പ്രക്രിയ നിരീക്ഷിക്കുന്നതിന് ഏറ്റവും സാധാരണയായി ഉപയോഗിക്കുന്ന ടൂൾ കൺട്രോൾ ചാർട്ടുകൾ ആണ് നമ്മൾ അത് ചർച്ച ചെയ്യും അതിനാൽ ഉൽപാദനത്തിന്റെ വിവിധ വശങ്ങൾ നിരീക്ഷിക്കുന്നതിന് വേണ്ടി വ്യത്യസ്ത തരം കൺട്രോൾ ചാർട്ടുകൾ ഉണ്ട് അതിനാൽ കൺട്രോൾ ചാർട്ടുകൾ എങ്ങനെ വികസിപ്പിക്കാം കൺട്രോൾ ചാർട്ട് പ്രോസസ്സ് ചാർട്ട് എന്നും അറിയപ്പെടുന്നു അല്ലെങ്കിൽ ക്വാളിറ്റി കൺട്രോൾ ചാർട്ട് ഒരു ഗ്രാഫാണ് അത് ഒരു ഡാറ്റാ സാമ്പിൾ പൊതുവായ അല്ലെങ്കിൽ നോർമൽ റേഞ്ച് വ്യതിയാനങ്ങളിൽ ഉൾപ്പെടുന്നുണ്ടോ എന്ന് കാണിക്കുന്നു അതിനാൽ ഇത് ഒരു പൊതുവായ അല്ലെങ്കിൽ നോർമൽ റേഞ്ച് വ്യതിയാനമാണെങ്കിലും കൺട്രോൾ ചാർട്ടുകൾക്ക് അപ്പർ കൺട്രോൾ ലിമിറ്റ് ഉണ്ട് അതിന് U L ഉണ്ട് അതായത് അപ്പർ കൺട്രോൾ ലിമിറ്റ് ഇതിന് L L ഉണ്ട് അതായത് ലോവർ കൺട്രോൾ ലിമിറ്റ് ഒപ്പം ഇതിന് C L ഉണ്ട് അത് സെന്റർ ലൈനാണ് അതിനാൽ സെന്റർ ലൈന് യഥാർത്ഥ മൂല്യമായിരിക്കാം അല്ലെങ്കിൽ യഥാർത്ഥ മൂല്യത്തിന് അടുത്തുള്ള ഒന്നായിരിക്കാം അതിനാൽ അത് നമുക്ക് നേടേണ്ടതുണ്ട് അതിനാൽ നമ്മുടെ ഡാറ്റയുടെ അളവുകൾ ഉൾകൊള്ളേണ്ടുന്ന ലിമിറ്റുകളാണ് അപ്പർ കൺട്രോൾ ലിമിറ്റും അതുപോലെ ലോവർ കൺട്രോൾ ലിമിറ്റും അതിനാൽ കൺട്രോൾ ചാർട്ട് എങ്ങനെ നിർമ്മിക്കാം നമ്മൾ ഇത് ചർച്ച ചെയ്യും അതിനാൽ പ്ലോട്ട് ചെയ്ത ഡാറ്റ എപ്പോഴാണോ ഒന്നോ അതിലധികമോ സാമ്പിളുകൾ കൺട്രോൾ ലിമിറ്റിനു പുറത്താണെന്ന് വെളിപ്പെടുത്തുന്നത് അപ്പോൾ നമ്മൾ പറയും പ്രോസസ് നിയന്ത്രണ പരിധിക്ക് പുറത്താണെന്ന് അതിനാൽ കൺട്രോൾ ചാർട്ട് എങ്ങനെ പ്ലോട്ട് ചെയ്യാം എന്നതിന്റെ ഒരു ചിത്രീകരണം നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇത് സെൻട്രൽ ലൈൻ ആണ് ഒപ്പം നമുക്ക് അപ്പർ കൺട്രോൾ ലിമിറ്റും കൂടാതെ നമുക്ക് ലോവർ കൺട്രോൾ ലിമിറ്റും ഉണ്ട് പൊതുവായി പറഞ്ഞാൽ എനിക്ക് ഉറപ്പില്ല ഇത് 3σ സിഗ്മ ആകാം 3 σ ഇത് 3 σ ആകാം പ്രത്യേകിച്ചും X bar ചാർട്ടിന്റെ കാര്യത്തിൽ ഈ മൂല്യം അവിടെ ഉണ്ട് അതിനാൽ നമുക്ക് ഈ ലൈൻ ഇവിടെയുണ്ട് ഇത് ഒരു അപ്പർ കൺട്രോൾ ലിമിറ്റ് ആണ് ഇത് ഒരു ലോവർ കൺട്രോൾ ലിമിറ്റ് ആണ് അതിനുശേഷം നമുക്ക് പ്രോസസ്സുകളോ നമ്മുടെ പോയിന്റുകളോ ഇവിടെ ഉണ്ടാകും ഉദാഹരണത്തിന് ഇത് സാമ്പിൾ സൈസ് ആണെങ്കിൽ സാമ്പിൾ 1 2 3 4 ഇത് സാമ്പിൾ നമ്പർ ആണ് ഇത് ഒരു നോമിനൽ സ്കെയിൽ മാത്രമാണ് 1 2 3 4 5 6 എനിക്ക് 6 പോയിന്റുകൾ ഉണ്ടെന്ന് പറയാൻ കഴിയും 1 2 3 അതിനുശേഷം അത് 4 ആയിരിക്കാം അത് ഇവിടെ ആണ് അതിനുശേഷം 5 പിന്നെ 6 ആണ് എനിക്ക് ഇവിടെയും ഒരു ലൈൻ വരയ്ക്കാൻ കഴിയും അതിനാൽ 6 പോയിന്റുകൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ മൂല്യം ഈ നിർദ്ദിഷ്ട മൂല്യം 5 നിയന്ത്രണത്തിലല്ല അല്ലെങ്കിൽ അത് നിയന്ത്രണ പരിധിക്ക് പുറത്താണ് അതിനാൽ ഇത്തരത്തിലുള്ള എറർ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും കാണാൻ കഴിയുമെങ്കിൽ ഇത് റാൻഡം പോലെ പ്ലോട്ട് 1 2 3 4 5 6 7 8 പോലെയാണ് ഇത് 5 ന് ശേഷം 9 വരുന്നു എന്നിട്ട് അത് താഴേക്ക് വരുന്നു ഇത് റാൻഡം ആകാം ഓക്കേ അസൈനബിൾ കാരണങ്ങളൊന്നുമില്ല അതിനാൽ ഞാൻ ചില റാൻഡം ഡാറ്റ ഉപയോഗിച്ച് നിർമ്മിച്ച ഇത്തരത്തിലുള്ള പ്ലോട്ട് അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പ്ലോട്ട് ചെയ്താലും നിങ്ങൾക്ക് കാണാൻ കഴിയും അവിടെ ഇന്ക്രീസിങ് ട്രെൻഡ് ഉണ്ടെന്ന് അത് ഇവിടെ നിന്നും അനുമാനിക്കാം എന്നാൽ നമുക്ക് യഥാർത്ഥ പരീക്ഷണങ്ങൾ കാണേണ്ടതുണ്ട് അത് അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ കാണേണ്ടതുണ്ട് ഒപ്പം ആ എറർ പോയിന്റ് നമ്പർ 3 ൽ നിന്ന് ആരംഭിച്ചു അത് വർദ്ധിച്ചുകൊണ്ടിരുന്നു എന്നിട്ട് അത് നിയന്ത്രണാതീതമായി അതിനുശേഷം അത് താഴേക്ക് പോയി മൂല്യം ഇവിടെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്കറിയാം നിങ്ങൾ അളക്കുന്ന ഉപകരണത്തിന് അതിൽ ചില അപചയം സംഭവിച്ചിരിക്കാം അല്ലെങ്കിൽ നിരീക്ഷിക്കുന്ന നിരീക്ഷകന് ചില പാരലാക്സ് പിശകുകളുണ്ടാകാം എന്തെങ്കിലും തരത്തിലുള്ള പിശകുകൾ ഉണ്ടാകാം പക്ഷേ ഇത് ഒരുതരം ഇന്ക്രീസിങ് ട്രെൻഡ് ആണ് ഓക്കേ ഇതാണ് കൺട്രോൾ ചാർട്ടുകൾ അല്ലെങ്കിൽ ഗ്രാഫിക്കൽ അല്ലെങ്കിൽ ഡാറ്റ വിഷ്വലൈസേഷൻ നമ്മളെ അതിന്റെ കാരണം ഇതാണോ അല്ലയോ എന്ന് കാണാൻ സഹായിക്കുന്നു യഥാർത്ഥ കാരണം നമ്മൾ എങ്ങനെ കണ്ടെത്തും നമ്മൾ യഥാർത്ഥത്തിൽ ഉപകരണത്തിലേക്ക് പോകുന്നു എന്നിട്ട് എങ്ങനെയാണ് നിരീക്ഷണങ്ങൾ നടത്തുന്നത് അല്ലെങ്കിൽ അവിടെ യഥാർത്ഥത്തിൽ എന്ത് പിശകാണ് സംഭവിക്കുന്നതെന്ന് കണ്ടെത്തുന്നു അതിനാൽ നമുക്ക് അതിലും പ്രവർത്തിക്കാൻ കഴിയും അടുത്തതായി ഞാൻ വിവിധ തരം കൺട്രോൾ ചാർട്ടുകളെ കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോസസ്സ് കൺട്രോളിൽ സാധാരണയായി ഉപയോഗിക്കുന്ന ഉപകരണങ്ങളിലൊന്നാണ് കൺട്രോൾ ചാർട്ടുകൾ ഒപ്പം ഉൽപ്പന്നങ്ങളുടെ ഏതെങ്കിലും ക്യാരക്ട്റിസ്റ്റിക്സ് അളക്കാൻ അവ ഉപയോഗിക്കാം ഉദാഹരണത്തിന് ഭാരം ഒരു ബോക്സിലെ പീസുകളുടെ എണ്ണം പിന്നെ ഒരു കുപ്പിയിലെ വോളിയം തുടർന്ന് ഷാഫ്റ്റുകളുടെ വലുപ്പങ്ങൾ തുടർന്ന് താപനില വ്യത്യാസങ്ങൾ തുടർന്ന് ഒരു മുറിയിലെ രാവിലത്തെ അല്ലെങ്കിൽ വൈകുന്നേരത്തെ താപനില അതിനാൽ നമുക്ക് ഏത് ഡാറ്റയും അളക്കാൻ കഴിയും നമുക്ക് രണ്ട് തരം കൺട്രോൾ ചാർട്ടുകൾ ഉണ്ട് ഒന്ന് വേരിയബിളുകൾക്കും മറ്റൊന്ന് ആട്രിബ്യൂട്ടുകൾക്കുമായി ഞാൻ വേരിയബിളുകൾ എന്ന് പറയുമ്പോൾ അത് കണ്ടിന്യൂവസ് ഡാറ്റയുമായി കൂടുതൽ അടുപ്പമുള്ളതാണ് ഏതൊരു ഡാറ്റയും നമുക്ക് നോർമൽ കർവിൽ അല്ലെങ്കിൽ കണ്ടിന്യൂവസ് നോർമൽ കർവിൽ ഫിറ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതാണ് ഒരു വേരിയബിൾ ഓക്കേ ആട്രിബ്യൂട്ടുകൾ അത് ഒരിക്കലും കണ്ടിന്യൂവസ് ഡാറ്റ ആയിരിക്കില്ല ഉദാഹരണത്തിന് ഒരു ബോക്സിലെ പീസുകളുടെ എണ്ണം ആദ്യത്തെ രണ്ടാമത്തെ ബോക്സൂകളിലുള്ള പീസുകൾ അല്ലെങ്കിൽ ഒരു ഉൽപ്പന്നത്തിലെ കേടുപാടുകൾ എന്നിവ ലഭ്യമായേക്കാം ഉദാഹരണത്തിന് ഞാൻ ഒരു കാർ നിർമ്മിച്ചു കാറിന്റെ ടയറുകളിലെ കേടുപാടുകളുടെ എണ്ണം കാർ 1 കാർ 2 കാറിന്റെ ഓരോ പീസിലും ഉള്ള കേടുപാടുകളുടെ എണ്ണം ഒപ്പം ചിലപ്പോൾ ആട്രിബ്യൂട്ടുകൾക്ക് ആനുപാതികമായി എടുക്കുന്നു വേരിയബിളുകൾ നീളം ആകാം വേരിയബിളുകൾ ഭാരം ആകാം അങ്ങനെ ഉള്ള കണ്ടിന്യൂവസ് ഡാറ്റയെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു ഓക്കേ അതിനാൽ കൺട്രോൾ ചാർട്ട് ഉപയോഗിച്ച് വ്യത്യസ്ത ക്യാരക്ടറിസ്റ്റിക്സുകളെ അളക്കാൻ കഴിയുന്നവയെ രണ്ട് ഗ്രൂപ്പുകളായി തിരിക്കാം വേരിയബിൾ അതുപോലെ ആട്രിബ്യൂട്ട് ഓക്കേ അളക്കാവുന്നതും കണ്ടിന്യൂവം മൂല്യമുള്ളതുമായ ക്യാരക്ടറിസ്റ്റിക്സുകളെ നിരീക്ഷിക്കാൻ വേണ്ടി കൺട്രോൾ ചാർട്ട് ഫോർ വേരിയബിൾസ് ഉപയോഗിക്കുന്നു ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞതുപോലെ ഉയരം ഭാരം അല്ലെങ്കിൽ വോളിയം എന്നിവ എനിക്ക് ഇവിടെ ഉദ്ധരിക്കാൻ കഴിയുന്ന കുറച്ച് ഉദാഹരണങ്ങൾ ഉദാഹരണത്തിന് ഒരു സോഫ്റ്റ് ഡ്രിങ്ക് ബോട്ട്ലിംഗ് പ്രവർത്തനം എന്നത് ഒരു തരം വേരിയബിൾ അളവാണ് കാരണം ഒരു കുപ്പിയിൽ നിറച്ച ദ്രാവകത്തിന്റെ അളവ് അളക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ വോളിയം അളക്കേണ്ടതുണ്ട് ഓക്കേ അതിനുശേഷം നമുക്കറിയാം അതായത് ഇത്രയും വോളിയം ഉണ്ടെന്ന് തുടർന്ന് നമ്മൾ കുപ്പി അടയ്ക്കുന്നു അതിനാൽ മറ്റൊരു ഉദാഹരണം എന്നത് ബേക്കിംഗ് ഓവന്റെ താപനിലയായിരിക്കാം നിങ്ങൾ താപനിലയിൽ എന്തെങ്കിലും തരത്തിലുള്ള പരീക്ഷണം നടത്തുകയാണെങ്കിൽ ബേക്കിംഗ് ഓവൻ താപനില ഒരു മികച്ച ഉദാഹരണമാണ് അതിനുശേഷം നമ്മൾ നിർമ്മിച്ച പീസുകളുടെ വ്യാസം അല്ലെങ്കിൽ ഗിയർ ടൂത്തിന്റെ സൈസ് ഇവയെല്ലാം വേരിയബിളുകളാണ് ഓക്കേ ആട്രിബ്യൂട്ടുകൾ ആട്രിബ്യൂട്ടുകൾ ഡിസ്ക്രീറ്റ് മൂല്യങ്ങളുള്ള ക്യാരക്ടറിസ്റ്റിക്സുകളെ അളക്കുന്നതിനും അല്ലെങ്കിൽ നിരീക്ഷിക്കുന്നതിനും ഉപയോഗിക്കാം അതുപോലെ അത് എണ്ണുവാനും സാധിക്കും അതിനാൽ അത് ഞാൻ ഇവിടെ ഇടുന്നതാണ് നല്ലത് അതിനാൽ ഇത് കൂടുതലും ഡിസ്ക്രീറ്റ് മൂല്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ എണ്ണുവാൻ കഴിയുന്നവയാണ് ഉദാഹരണത്തിന് നിറം രുചി ഓക്കേ ആട്രിബ്യൂട്ട് നിറമാകാം രുചി ആകാം അതിന്റെ ഉത്തരം അതെ അല്ലെങ്കിൽ ഇല്ല എന്നാകാം അല്ലെങ്കിൽ നല്ലത് എന്നോ ചീത്ത എന്നോ ഉത്തരങ്ങൾ ആകാം ഓക്കേ അതിനാൽ സ്വീകാര്യമായത് അല്ലെങ്കിൽ അസ്വീകാര്യമായത് എന്നീ പദങ്ങളിൽ ഏതെങ്കിലും ഒന്നാകാം പക്ഷേ അത് ഞാൻ അക്സെപ്റ്റൻസ് സാംപ്ലിങ്ങിൽ ഉപയോഗിക്കുന്നതാണ് നല്ലത് അതിനാൽ ആട്രിബ്യൂട്ടുകൾ ഇതിൽ നിറം രുചി മണം എന്നിവ ഉൾപ്പെടുന്നു ആട്രിബ്യൂട്ടിനെ നിരീക്ഷിക്കാൻ വേരിയബിളുകളേക്കാൾ കുറച്ച് സമയമേ എടുക്കു കാരണം വേരിയബിളുകൾ പൂർണ്ണമായും അളക്കേണ്ടതുണ്ട് നമ്മൾ വേരിയബിളിനെ അളക്കുന്നു തുടർന്ന് നമ്മൾ റീഡിങ്ങുകൾ എഴുതുന്നു അതിനുശേഷം നമുക്ക് അത് നമ്മുടെ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സിൽ ഉൾപ്പെടുത്താം നമുക്ക് അത് വിവരിക്കാനും അതുപോലെ അത് ഒരു പട്ടികയിൽ ഉൾപ്പെടുത്താനും കഴിയും അതിനുശേഷം നമുക്ക് അത് ഇഷ്ടമുള്ള രീതിയിൽ പ്ലോട്ട് ചെയ്യാം ഓക്കേ നമുക്ക് ലഭിച്ച നിർദ്ദിഷ്ട ഡാറ്റ ഉചിതമായ രീതിയിൽ എങ്ങനെ ഫിറ്റ് ആകുമോ ആ രീതിയിൽ പ്ലോട്ട് ചെയ്യാം അതിനാൽ വേരിയബിളുകൾ എന്നാൽ അർത്ഥമാക്കുന്നത് ഇത് ഒരുതരം കണ്ടിന്യൂവം ഡാറ്റയാണ് ഓക്കേ ഇവിടെ ഉദാഹരണങ്ങൾ ഉയരം ഭാരം പിന്നെ വോളിയം ചിലപ്പോൾ താപനില പിന്നെ പ്രഷർ എന്നിവയെല്ലാം ആണ് ഞാൻ ഉയരം എന്ന് പറയുമ്പോൾ അത് വ്യാസമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നീളമോ ആകാം ഇവിടെ നീളം എന്ന് ഇടുന്നത് ആണ് നല്ലത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലീനിയർ മെഷർമെന്റ് നൽകുന്നതാണ് നല്ലത് അതിനാൽ സ്വീകാര്യമായ അസ്വീകാര്യമായ ആട്രിബ്യൂട്ടുകളുടെ കാര്യത്തിൽ ഉദാഹരണത്തിന് ഒരു ബോക്സിൽ കേടുപാടുകൾ ഇല്ലാത്ത പീസുകളുടെ എണ്ണം അല്ലെങ്കിൽ ഒരു ബോക്സിൽ കേടുപാടുകൾ ഉള്ള പീസുകളുടെ എണ്ണം അതിനുശേഷം നമ്മൾ നിർമ്മിച്ച ലൈറ്റ് ബൾബ് പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ ബൾബ് ഒന്നുകിൽ ഓൺ ആകും അല്ലെങ്കിൽ ഓൺ ആകില്ല GO NO GO ഗേജുകൾ രണ്ടും പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ നമ്മൾ നിർമ്മിച്ച രീതിയിൽ ഉള്ള ഷാഫ്റ്റോ ഹോളോ ബെയറിംഗോ ആണോ ഇത് GO NO GO ഗേജുകൾ രണ്ടും അതിനോടൊപ്പം ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ നമുക്ക് ഹോൾ സൈസ് കാണേണ്ടതുണ്ട് അതിനാൽ അവ ആട്രിബ്യൂട്ടുകൾ ആകാം അതിനാൽ അടുത്തത് വിവിധ തരം കൺട്രോൾ ചാർട്ടുകൾ ആണ് ആട്രിബ്യൂട്ട് കൺട്രോൾ ചാർട്ടിൽ നമുക്ക് p chart C chart U chart np chart എന്നിവയുണ്ട് ഞാൻ അവയെ ഓരോന്നായി എടുത്ത് കുറച്ച് ഡാറ്റ തിരഞ്ഞെടുത്ത് എക്സലിൽ പ്ലോട്ട് ചെയ്യാൻ ശ്രമിക്കുകയും തുടർന്ന് ഈ നിർദ്ദിഷ്ട തരം ഡാറ്റ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുമെന്ന് വിശദീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യും അവ ആ നിർദ്ദിഷ്ട രൂപത്തിൽ ലഭ്യമാണ് എങ്കിൽ ഈ ചാർട്ടുകൾ പ്ലോട്ട് ചെയ്യുക വേരിയബിൾ കൺട്രോൾ ചാർട്ടിൽ നമുക്ക് X ബാർ ചാർട്ട് R ചാർട്ട് അല്ലെങ്കിൽ റേഞ്ച് ചാർട്ട് ഉണ്ട് അതിനാൽ ഞാൻ ആദ്യം വേരിയബിൾ ചാർട്ടുകൾ എടുക്കും തുടർന്ന് ഞാൻ ആട്രിബ്യൂട്ട് ചാർട്ടുകൾ എടുക്കുകയും വിശാലമായ വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി അത് ഈ X ബാർ ചാർട്ട് മോണിറ്ററിൽ നമ്മൾ ഇവിടെ നിരീക്ഷിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രോസസ്സ് മീൻ ആണ് ഉദാഹരണത്തിന് നിങ്ങൾ എന്തെങ്കിലും കാസ്റ്റിംഗ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ താപനില ഒരു പ്രത്യേക പരിധിക്കുള്ളിൽ നിലനിർത്തേണ്ടതുണ്ട് കൂടാതെ നമ്മൾ താപനില വിവിധ സന്ദർഭങ്ങളിൽ അളക്കുകയും ചെയ്യുന്നു അത് ഒരു മണിക്കൂർ താപനില നിലനിർത്തേണ്ടതുണ്ട് ഓരോ 5 മിനിറ്റിലും നമുക്ക് താപനില അളക്കാൻ കഴിയും അങ്ങനെ ഒരു മണിക്കൂറിൽ ആ ഓരോ 5 മിനിറ്റ് ഇടവിട്ട് ആകെ മൊത്തം 12 റീഡിങ്ങുകൾ നമുക്ക് നൽകും ആ 12 റീഡിങ്ങുകളുടെ പ്രോസസ്സ് മീൻ എടുക്കുന്നു ശരാശരി താപനില അതിനാൽ അത് നിരീക്ഷിക്കപ്പെടേണ്ടതാണ് അതിനാൽ നമുക്ക് ലഭിച്ച വ്യത്യസ്ത നിരീക്ഷണങ്ങൾ ശരാശരി താപനില ആയി എടുക്കുന്നു അവ ലിമിറ്റിന് ഉള്ളിൽ ആണോ അല്ലയോ എന്ന് നമ്മൾ അത് കാണാൻ ശ്രമിക്കും കൺട്രോൾ ലിമിറ്റും സ്പെസിഫിക്കേഷൻ ലിമിറ്റും അതിനെക്കുറിച്ചും ഞാൻ നിങ്ങളോട് പറയും അതിനാൽ അടുത്തത് R ചാർട്ട് അതിനാൽ R ചാർട്ട് എന്നാൽ റേഞ്ച് ആണ് എന്താണ് റേഞ്ച് റേഞ്ച് എന്നാൽ മാക്സിമവും മിനിമവും മൂല്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണ്

അതിനാൽ ഇത് എന്താണ് പറയുന്നത് ഇത് യഥാർത്ഥത്തിൽ പ്രോസസ് വേരിയബിളിറ്റിയുടെ അളവാണ് ഓക്കേ അതിനാൽ p ചാർട്ടിൽ p എന്നത് പ്രൊപോർഷൻ ഓഫ് ഡിഫക്റ്റീവിന് വേണ്ടിയാണ് അതിനാൽ ഞാൻ ഇത് പ്രൊപോർഷൻ അല്ലെങ്കിൽ ഫ്രാക്ഷൻ ഡിഫക്റ്റീവ് അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു ഉദാഹരണത്തിന് നമ്മൾ ചില സാമ്പിളുകൾ എടുക്കുകയാണെങ്കിൽ 10 സാമ്പിളുകളിൽ വെച്ച് നമ്മൾ കണ്ടു 10 സാമ്പിളുകൾ അർത്ഥമാക്കുന്നത് ഓരോ സാമ്പിൾ വലുപ്പവും വ്യത്യസ്തമായിരിക്കും ആദ്യ സാമ്പിളിൽ നമ്മൾ കണ്ടു 10 എണ്ണത്തിൽ 2 പീസുകൾ കേടുപാടുകൾ ഉള്ളതാണ് രണ്ടാമത്തെ സാമ്പിളിൽ 20 എണ്ണത്തിന് ശേഷം 3 പീസുകൾ കേടുപാടുകൾ ഉള്ളതായിരിക്കാം ആദ്യ സാമ്പിളുകളിൽ 10 ൽ 2 എണ്ണം അതിന്റെ അർത്ഥം 0 2 എന്നാണ് ഇതാണ് ഫ്രാക്ഷൻ ഡിഫക്റ്റീവ് ഈ ചാർട്ട് ഞാൻ എങ്ങനെ പ്ലോട്ട് ചെയ്യും ഞാൻ അതിലേക്ക് വരും കൂടാതെ C ചാർട്ട് എന്നത് ഒരു കാർ നിർമ്മിക്കുമ്പോൾ ആ കാറിലെ ഡിഫെക്ടുകളുടെ എണ്ണം അല്ലെങ്കിൽ കാറിന്റെ നിർദ്ദിഷ്ട വിഭാഗത്തിലെ ഡിഫെക്ടുകളുടെ എണ്ണം കണ്ടെത്തുവാൻ വേണ്ടി ആണ് അതിനാൽ അത് ഡിഫെക്ടുകളുടെ എണ്ണമാണ് U ചാർട്ട് എന്നത് നമുക്ക് ഒരു യൂണിറ്റിൽ എത്ര ഡിഫെക്ടുകൾ ഉണ്ടെന്ന് കണ്ടെത്തുവാൻ വേണ്ടി ആണ് അതിനാൽ U ഉം C ചാർട്ടും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ കാണാൻ ശ്രമിക്കും ഇവ രണ്ടും സമാനമാണ് കാരണം നമ്മൾ രണ്ട് ചാർട്ടുകളിലും ഡിഫെക്ടുകൾ കൈകാര്യം ചെയ്യുന്നു പക്ഷേ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ സാമ്പിൾ സൈസ് വ്യത്യസ്തമാകുമ്പോൾ നമ്മൾ U ചാർട്ട് ഉപയോഗിക്കുന്നു സാമ്പിൾ സൈസ് സമാനമാകുമ്പോൾ നമ്മൾ C ചാർട്ട് ഉപയോഗിക്കുന്നു ഉദാഹരണത്തിന് സാമ്പിൾ സൈസ് ഞാൻ 10 സാമ്പിളുകൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ കൂടാതെ ഓരോ സാമ്പിളിലും 20 പീസുകൾ അതിൽ ഉണ്ട് അതിനാൽ മൊത്തം ഉള്ള 20 പീസുകളിൽ നമ്മൾ ഇപ്പോൾ ഡിഫെക്ടുകളുടെ എണ്ണം എഴുതി വയ്ക്കാൻ ശ്രമിക്കുന്നു അതിനാൽ അവിടെ നമ്മൾ C ചാർട്ട് ഉപയോഗിക്കും എന്നാൽ നിങ്ങൾ റാൻഡമായി സാമ്പിൾ സൈസ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അപ്പോൾ U ചാർട്ട് ഉപയോഗിക്കാൻ കഴിയും കാരണം നമ്മൾ ഒരു യൂണിറ്റിനുള്ള ഡിഫെക്ടുകൾ എടുക്കുന്നു ഉദാഹരണത്തിന് ആദ്യത്തെ 20 എണ്ണം പിന്നെ 30 പിന്നെ 10 എന്നിങ്ങനെ ഡാറ്റ നോർമലൈസ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കും എന്നിട്ട് നമ്മൾ അത് ഒറ്റ സ്കെയിലിലേക്ക് കൊണ്ടുവരും അടുത്തത് np ചാർട്ട് ആണ് ഇൻസ്പെക്ഷൻ യൂണിറ്റുകളിലെ ഒരു സാമ്പിളിലെ ഡിഫക്റ്റീവുകളുടെ എണ്ണമാണ് np ചാർട്ട് ഇൻസ്പെക്ഷൻ യൂണിറ്റുകളിലെ സാമ്പിളിലെ ഡിഫക്റ്റീവുകളുടെ എണ്ണം ഞാൻ ഇടുന്നു അതിനാൽ ഈ കാര്യങ്ങൾ ഒക്കെ ആണ് ഈ നിർദ്ദിഷ്ട ചാർട്ടുകളിൽ നിന്നും നമ്മൾ നിരീക്ഷിക്കാനോ നിയന്ത്രിക്കാനോ ശ്രമിക്കുന്നത് അതിനാൽ നമുക്ക് അടുത്ത ഭാഗത്തിൽ കണ്ടുമുട്ടാം